ഇനി നമുക്ക് അടുത്ത വലിയൊരു കൺട്രോൾഡ് സോഴ്സ് ആയ കറൻറ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് എങ്ങനെ കൈവരിക്കാം എന്നു കാണാം കറൻറ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സിൽ ഇൻപുട്ട് കറൻറ് ii ഔട്ട്പുട്ട് വോൾട്ടേജ് vo എന്നിവയുണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് vo ഇൻപുട്ട് കറൻറ് ii ക്ക് ആനുപാതികമാണ് ഈ പ്രൊപ്പോഷണാലിറ്റി കോൺസ്റ്റൻന്റിനെ ഞാൻ Rm എന്നു വിളിക്കും ഇതിനെ ട്രാൻസ് കണ്ടക്ടൻസ് പോലെ ട്രാൻസ് റസിസ്റ്റൻസ് ആയി കരുതാം ഇത് വോൾട്ടേജ് കറൻറ് എന്നിവ തമ്മിലുള്ള അനുപാതമാണ് പക്ഷേ ഒരേ ടെർമിനലുകളിൽ ഉള്ള വോൾട്ടേജും കറണ്ടും അല്ല ഒരു കറൻറ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് ഒരു ട്രാൻസ് റസിസ്റ്റൻസ് നിർമ്മിക്കുന്നതിനാൽ ഇതിനെ ചിലപ്പോൾ ട്രാൻസ് റസിസ്റ്റൻസ് അല്ലെങ്കിൽ ട്രാൻസ് ഇംപിഡൻസ് ആംപ്ലിഫയർ എന്നു വിളിക്കുന്നു ഇത് നാം എങ്ങനെയാണ് രൂപീകരിക്കുന്നത് നമുക്ക് ഒരു ഇൻപുട്ട് കറന്റ് i1 ഉണ്ട് ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നാൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിച്ച് ഈ റിലേഷൻഷിപ്പ് കൈവരിക്കാം അതായത് നമുക്ക് vo iiRm എന്നു മനസ്സിലാക്കാം അല്ലെങ്കിൽ ഇതിലെ നെഗറ്റീവിനെ ആവശ്യമുള്ള ഔട്ട്പുട്ടിനും യഥാർത്ഥത്തിലുള്ള ഔട്ട്പുട്ടിനും ഇടയിലുള്ള എറർ ആയി കണക്കാക്കാം അതിനാൽ vo iiRm എന്നത് പൂജ്യത്തെക്കാൾ വലുതാണെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഔട്ട്പുട്ട് vo ആവശ്യമുള്ള ഔട്ട്പുട്ട് ആയ iiRm നേക്കാൾ കൂടുതലാണ് ഇങ്ങനെയാകുമ്പോൾ ഔട്ട്പുട്ട് vo കുറയ്ക്കേണ്ടതുണ്ട് vo iiRm എന്നത് പൂജ്യത്തെക്കാൾ ചെറുതാണെങ്കിൽ അതായത് യഥാർത്ഥത്തിലുള്ള ഔട്ട്പുട്ട് vo ആവശ്യമുള്ള ഔട്ട്പുട്ട് ആയ iiRm നേക്കാൾ ചെറുതാണെങ്കിൽ ഔട്ട്പുട്ട് vo വർദ്ധിപ്പിക്കണം ഒരു ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് ഇത് നിർവഹിക്കണം തീർച്ചയായും കറൻറ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് എന്നു പറയുമ്പോൾ MOS ട്രാൻസിസ്റ്റർ ഉപയോഗിക്കണം എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് എങ്ങനെയാണ് കറൻറ് കൺട്രോൾഡ് സോഴ്സ് ആയ MOS ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് നാം ഔട്ട്പുട്ട് വോൾട്ടേജ് പുൾ അല്ലെങ്കിൽ പുഷ് ചെയ്യുന്നത് ഇതിനർത്ഥം vo പുൾ ഡൌൺ ചെയ്യേണ്ടപ്പോൾ ഔട്ട്പുട്ട് നോഡിൽ നിന്നും കറൻറ് വലിച്ചെടുക്കണം അതുപോലെ vo പുഷ് അപ് ചെയ്യേണ്ടപ്പോൾ കറൻറ് ഔട്ട്പുട്ട് നോഡിലേക്ക് പുഷ് ചെയ്യപ്പെടണം ഇവയെല്ലാം ഒരുമിച്ചു ചേർക്കുകയും ട്രാൻസിസ്റ്റർ എങ്ങനെ പെരുമാറുന്നു എന്ന് അറിയുകയും ചെയ്താൽ കറൻറ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് നമുക്ക് രൂപീകരിക്കാം മുൻപത്തെ കൺട്രോൾഡ് സോഴ്സസിൽ ഉപയോഗിച്ച രീതിയാണ് ഇവിടെയും നാം ഉപയോഗിച്ചിരിക്കുന്നത് എറർ ആയി കാണിച്ചിരിക്കുന്ന ഒരു സമവാക്യം ആദ്യം പൂജ്യം ആകേണ്ടതുണ്ട് എറർ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് നെഗറ്റീവ് ആണെങ്കിൽ ഇതിൻറെ വിപരീതമായി ചെയ്യണം നാം നിർമ്മിക്കുന്ന സർക്യൂട്ട് ഈ പ്രവർത്തനങ്ങൾ എല്ലാം ചെയ്യും ഞാൻ സമവാക്യം വീണ്ടും എഴുതാം ഇതിൽ vo iiRm എന്നത് കറൻറ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സിൻറെ എറർ ആയി സൂചിപ്പിക്കാം ഇത് പൂജ്യത്തെക്കാൾ വലുതാണെങ്കിൽ ഇതിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയ്ക്കണം ഇത് പൂജ്യത്തെക്കാൾ ചെറുതാണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് വർദ്ധിപ്പിക്കണം ഇതിൽ ട്രാൻസിസ്റ്റർ ചെയ്യുന്നത് എന്തെന്നാൽ vgs പൂജ്യത്തെക്കാൾ അധികം ആണെങ്കിൽ ഇത് ഡ്രെയിനിൽ നിന്നും കറൻറ് പുൾ ചെയ്യുകയും സോഴ്സിലേക്ക് കറൻറ് പുഷ് ചെയ്യുകയും ചെയ്യുന്നു ഒരു ഓപ്പറേറ്റിങ് പോയിന്റിന് ചുറ്റുമുള്ള വർദ്ധിക്കുന്ന vgs പൂജ്യത്തെക്കാൾ കൂടുതൽ ആണെങ്കിൽ ഡ്രെയിനിൽ നിന്നും സോഴ്സിലേക്ക് ഒഴുകുന്ന ഒരു വർദ്ധിക്കുന്ന കറൻറ് അവിടെ ഉണ്ടാകും ഇത് ഡ്രെയിൻ ടെർമിനലിൽ നിന്നാണ് പുൾ ചെയ്യപ്പെടുന്നത് അതിനാൽ ഡ്രെയിൻ വോൾട്ടേജ് കുറയാൻ തുടങ്ങും ഇത് സോഴ്സ് ടെർമിനലിലേക്ക് ആണ് പുഷ് ചെയ്യപ്പെടുന്നത് അതിനാൽ സോഴ്സ് വോൾട്ടേജ് വർദ്ധിക്കാൻ തുടങ്ങും അതുപോലെ vgs പൂജ്യത്തെക്കാൾ കുറവാണെങ്കിൽ ഇതിനു വിപരീതമായി സംഭവിക്കും ഇനി ഇതു രണ്ടും താരതമ്യം ചെയ്യുകയാണെങ്കിൽ vo iiRm പൂജ്യത്തെക്കാൾ കൂടുതൽ ആണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയ്ക്കേണ്ടതുണ്ട് അതിനായി ഔട്ട്പുട്ട് നോഡിൽ നിന്നും കറൻറ് പുൾ ചെയ്യണം vgs പൂജ്യത്തെക്കാൾ കൂടുതലാണെങ്കിൽ കറൻറ് ഡ്രെയിൻ നോഡിൽ നിന്നാണ് പുൾ ചെയ്യപ്പെടുന്നത് vo iiRm എന്നത് ട്രാൻസിസ്റ്ററിൻറെ വർദ്ധിക്കുന്ന ഗേറ്റ് സോഴ്സ് വോൾട്ടേജിന് തുല്യമാക്കുകയാണെങ്കിൽ ഡ്രെയിൻ ടെർമിനലിൽ നടക്കുന്നത് നമുക്ക് ആവശ്യമുള്ള കാര്യമാണ് ഇതിൽ നിന്നും vgs എന്നത് vo iiRm എന്നതിന് തുല്യമായിരിക്കണം എന്നും ഡ്രെയിൻ ടെർമിനൽ ഔട്ട്പുട്ട് ആണെന്നും നമുക്ക് മനസ്സിലാക്കാം ഇതിനുശേഷം നമുക്കാവശ്യമുള്ള കാര്യങ്ങൾ നടക്കും ഇനി നമുക്ക് സർക്യൂട്ട് പൂർത്തിയാക്കാം ഇൻപുട്ട് കറൻറ് ii ആണ് ട്രാൻസിസ്റ്ററിൻറെ സ്മാൾ സിഗ്നൽ ഇക്വിവാലൻറ് gmvgs ആണ് ഇത് ഗേറ്റ് ഇതു ഡ്രെയിൻ ഇത് സോഴ്സ് എന്നിങ്ങനെയാണ് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഔട്ട്പുട്ട് ഡ്രെയിനിൽ നിന്നോ ഡ്രെയിനിൻറെയും ഗ്രൌണ്ടിൻറെയും ഇടയിൽ നിന്നോ എടുക്കണം ഇവിടെ ഞാൻ സോഴ്സിനെ ഗ്രൌണ്ടും ആയി ബന്ധിപ്പിച്ച് ഡ്രെയിനിനെ ഔട്ട്പുട്ട് ആയി കരുതുന്നു അങ്ങനെയാണെങ്കിൽ vgs എന്നത് vo iiRm എന്നതിന് തുല്യമായിരിക്കണം ഈ വോൾട്ടേജ് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുക വോൾട്ടേജ് vo ആയ ഒരു നോഡ് ഉണ്ടെന്ന് കരുതുക vo iiRm കറൻറ് സോഴ്സ് I കറൻറ് തരുന്നു ഇത് എന്താണ് പറയുന്നത് iiRm ഉണ്ടാക്കുവാൻ Rm വാല്യൂ ഉള്ള ഒരു റെസിസ്റ്ററിലൂടെ ii കടത്തിവിടണം ഇപ്പോൾ ഈ പൊളാരിറ്റിയിലെ വോൾട്ടേജ് iiRm ആകും സർക്യൂട്ട് ഇനിയും മുഴുവൻ ആയിട്ടില്ല അതിനാൽ ഈ നോഡുമായി ബന്ധിപ്പിക്കുക ഇവിടത്തെ വോൾട്ടേജ് vo ഗ്രൌണ്ടുമായി ബന്ധപ്പെട്ടതാണ് അതിനാൽ ഇവിടത്തെ വോൾട്ടേജ് vo iiRm ആയിരിക്കും ഇങ്ങനെയാണ് vo iiRm വോൾട്ടേജ് ലഭിക്കുന്നത് ഇത് vgs എന്നതിന് തുല്യമാക്കുകയും വേണം ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട് ഇവിടെ ഒരു റെസിസ്റ്റർ Rm ബന്ധിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ii കറണ്ട് ഉണ്ട് അതിനാൽ വോൾട്ടേജ് iiRm ആയിരിക്കും ഈ നോഡിൽ ഗ്രൌണ്ടും ആയി ബന്ധപ്പെട്ട വോൾട്ടേജ് vo iiRm ആയിരിക്കും വോൾട്ടേജ് vgs എന്നതിന് തുല്യമായിരിക്കണം സോഴ്സ് ഗ്രൌണ്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത് ഇങ്ങനെ ബന്ധിപ്പിച്ചാൽ vgs എന്നത് vo iiRm എന്നതിന് തുല്യമാകും ഇതാണ് ഒരു കറൻറ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് നിർമ്മിക്കുന്ന രീതി ഇനി എന്താണ് സംഭവിക്കുന്നത് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് vo iiRm എന്നതിന് തുല്യമാകുന്നു vo iiRm പൂജ്യത്തെക്കാൾ അധികം ആണെങ്കിൽ vgs എന്നത് പൂജ്യത്തെക്കാൾ കൂടുതൽ ആയിരിക്കും കൂടാതെ ഡ്രെയിൻ നോഡിൽ നിന്നും കറൻറ് പുൾ ചെയ്യപ്പെടും ഒരു നോഡിൽ നിന്നും കറൻറ് പുൾ ചെയ്താൽ അവിടുത്തെ വോൾട്ടേജ് കുറയാൻ തുടങ്ങും ഇതാണ് വാസ്തവത്തിൽ സംഭവിക്കേണ്ടത് കാരണം vo iiRm എന്നത് പൂജ്യത്തെക്കാൾ അധികം ആണെങ്കിൽ യഥാർഥത്തിലുള്ള വോൾട്ടേജ് ആവശ്യമുള്ള വോൾട്ടേജിനേക്കാൾ കൂടുതലാണ് എന്നാണ് അർത്ഥം അതുപോലെ ഈ അളവ് പൂജ്യത്തെക്കാൾ കുറവാണെങ്കിൽ vgs നെഗറ്റീവ് ആയിരിക്കും ഈ കറൻറ് ഡ്രെയിൻ നോഡിലേക്ക് പുഷ് ചെയ്യപ്പെടും അത് ഔട്ട്പുട്ട് വോൾട്ടേജ് വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇതാണ് MOS ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള നമ്മുടെ കറൻറ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ്